ഹലോ സുരക്ഷിത സിസ്റ്റം എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ കോഴ്സിൽ നമുക്ക് C C പ്രോഗ്രാമുകളിലെ ധാരാളം കേടുപാടുകൾ പഠിക്കും കൂടാതെ ഈ കേടുപാടുകൾ മനസിലാക്കുന്നതിനും ആക്രമണകാരികൾക്ക് എങ്ങനെയാണ് ഈ കേടുപാടുകൾ ഉപയോഗപ്പെടുത്താനും ചൂഷണങ്ങളും ക്ഷുദ്രവെയറുകളും സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്നും മനസ്സിലാക്കാൻ സാധിക്കും C C പ്രോഗ്രാം ബൈനറികൾ മനസിലാക്കാൻ നമുക്ക് കഴിയുന്നത് പ്രധാനമാണ് അതിനാൽ ഈ കോഴ്സിൽ C ബൈനറികൾ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നതിന് നമ്മൾ ഇവിടെ പഠിക്കുന്നവയിൽ പലതും C ബൈനറികളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയും നമുക്ക് ഒരു ചെറിയ സി പ്രോഗ്രാമിൽ നിന്ന് ആരംഭിക്കാം നമുക്കറിയാവുന്നതുപോലെ ഈ പ്രോഗ്രാം str എന്ന character array നിർവചിക്കുന്നു തുടർന്ന് "hello world" സ്ട്രിംഗിനെ strലേക്ക് initialise ചെയ്യുന്നു തുടർന്ന് str പ്രിന്റുചെയ്യാൻ printf ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നു ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആദ്യം ചെയ്യുന്നത് ഈ പ്രോഗ്രാം type ചെയ്തു hello c ആയി save ചെയ്യുക എന്നതാണ് തുടർന്ന് gcc hello c എന്ന കംപൈലർ ഉപയോഗിക്കുക അത് a out എന്ന എക്സിക്യൂട്ടബിൾ സൃഷ്ടിക്കും ഈ എക്സിക്യൂട്ടബിൾ ഡിസ്കിൽ സംഭരിച്ചിരിക്കുന്നു അതിനാൽ ഈ എക്സിക്യൂട്ടബിളിന് ELF ഫോർമാറ്റ് എക്സിക്യൂട്ടബിൾ ലിങ്കർ ഫോർമാറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഷെല്ലിൽ നിന്ന് out കമാൻഡ് റൺ ചെയ്യുക അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്ന് എക്സിക്യൂട്ടബിൾ ഫയലുകൾ ലോഡ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു പ്രോസസ്സ് റാമിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയും നിങ്ങളുടെ ടെർമിനലിൽ "Hello World" എന്ന സ്ട്രിംഗ് അച്ചടിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽൽ ELF ഫോർമാറ്റിനെക്കുറിച്ചും ഈ പ്രോസസ്സിൽ അടങ്ങിയിരിക്കുന്ന ചില വിശദാംശങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കും നമ്മൾ ELF ഫോർമാറ്റ് എന്താണെന്ന് ചർച്ച ചെയ്യാം ഒബ്ജക്റ്റ് ഫയലുകളും എക്സിക്യൂട്ടബിളുകളും store ചെയ്യേണ്ട ഒരു ഘടനയെ ELF ഫോർമാറ്റ് വിവരിക്കുന്നു ELF ഫോർമാറ്റിന് രണ്ട് views ഉണ്ട് ഒന്ന് ലിങ്കർ view മറ്റൊന്ന് എക്സിക്യൂട്ടബിൾ view ഒബ്ജക്റ്റ് ഫയലുകൾക്ക് ലിങ്കർ view ബാധകമാണ് എക്സിക്യൂട്ടബിളുകൾക്ക് എക്സിക്യൂട്ടബിൾ view ഉണ്ട് നമുക്ക് ലിങ്കർ viewൽ നിന്ന് ആരംഭിക്കാം gcc hello c c എന്ന കമാൻഡ് ഉപയോഗിച്ച് hello o എന്ന ഒരു ഒബ്ജക്റ്റ് ഫയൽ സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ hello o ഒരു ELF ഒബ്ജക്റ്റ് ഫയലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഇതിന് ഒരു ഘടനയുണ്ട് തുടക്കത്തിൽ മുഴുവൻ ഫയൽ ഓർഗനൈസേഷനും വിവരിക്കുന്ന ഒരു ELF ഹെഡർ ഉണ്ട് ഇതിന് കോഡ് ഡാറ്റ ചിഹ്ന പട്ടിക സ്ഥലം മാറ്റ വിവരങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന വിവിധ വിഭാഗങ്ങളുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു വിഭാഗ ശീർഷക പട്ടികയും ഉണ്ട് section header tableൽ പ്രധാനമായും ELF ഒബ്ജക്റ്റ് ഫയലിലുളള വിവിധ വിഭാഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു structure ഉണ്ട് പ്രോഗ്രാം ഹെഡർ ടേബിൾ എന്നറിയപ്പെടുന്ന മറ്റൊരു structure ഉണ്ട് പക്ഷേ ഇത് സാധാരണയായി ഒബ്ജക്റ്റ് ഫയലിൽ ഇല്ല ഈ ഓരോ headersനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കും പ്രത്യേകിച്ച് ELF hearder വും section hearder വും നമുക്ക് ELF ഹെഡർ ആദ്യം നോക്കാം ELF ഹെഡർ വിവിധ പാരാമീറ്ററുകൾ ഉള്ള ഒരു ഘടനയെ നിർവചിക്കുന്നു ELF ഹെഡറിൽ നിലവിലുള്ള കുറച്ച് പാരാമീറ്ററുകൾ നമ്മൾ ഇവിടെ പരാമർശിക്കുന്നു ഇത് ഒരു ഐഡന്റിഫയർ ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഈ ഐഡന്റിഫയർ ഒരു മാജിക് നമ്പറാണ് അത് ഫയൽ ഒരു ELF ഫയലാണോ എന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് എല്ലാ ELF ഒബ്ജക്റ്റുകൾ ELF എക്സിക്യൂട്ടബിളുകൾ ലൈബ്രറികൾ തുടങ്ങിയവ ഈ ഐഡന്റിഫയറിൽ ആരംഭിക്കും തുടർന്ന് ELF ഹെഡറിൽ ഈ ഫയലിന്റെ തരം വിവരിക്കുന്ന ഒരു എൻട്രി ഉണ്ട് ഫയൽ ഒരു ഒബ്ജക്റ്റാണോ അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ഒരു shared ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോർ ഫയലാണോ എന്ന് തരം തിരിക്കുന്ന വിവരങ്ങൾ ഇതിലുണ്ട് മറ്റൊരു എൻട്രി മെഷീൻ വിശദാംശങ്ങളാണ് ഏത് processorന് ആയിട്ടാണ് ഈ ഫയൽ കംപൈൽ ചെയ്തത് ഇതിന് i386 X86 64 ARM MIPS എന്നിങ്ങനെയുള്ള എൻട്രികൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ARM എന്ന entry ഈ ഒബ്ജക്റ്റ് ഫയൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ARM പ്രോസസറിനായി compile ചെയ്തതാണ് എന്ന് സൂചിപ്പിക്കുന്നു പ്രോഗ്രാം എക്സിക്യൂഷൻ ആരംഭിക്കുന്ന virtual addressനെ വിവരിക്കുന്ന Entry എന്നറിയപ്പെടുന്ന ഒരു field ഉണ്ട് ഇത് എക്സിക്യൂട്ടബിളുകൾക്ക് ആണ് കൂടുതൽ ബാധകമായിരിക്കുന്നത് ELF ഹെഡറിലെ മറ്റൊരു പ്രധാന ഘടകം സെക്ഷൻ ഹെഡർ ടേബിളിലേക്കുള്ള പോയിന്റർ ആണ് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ section header table ELF imageന്റെ ഭാഗമായി നിലവിലുണ്ട് അതിൽ വിവിധ വിഭാഗങ്ങളിലേക്കുള്ള പോയിന്ററുകൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ ആ ഫയലിൽ നിലവിലുള്ള സെക്ഷൻ ഹെഡറുകളുടെ എണ്ണം സൂക്ഷിക്കുവാനുള്ള മറ്റൊരു എൻട്രിയും ഉണ്ട് നമ്മൾ എഴുതിയ പ്രോഗ്രാമിനായുള്ള ELF header നമുക്ക് നോക്കാം c എന്ന പ്രോഗ്രാം gcc hello c c എന്ന കമാൻഡ് ഉപയോഗിച്ച് നാം കംപൈൽ ചെയ്യുന്നു ഇതിലൂടെ നമുക്ക് എക്സിക്യൂട്ടബിൾ hello o ലഭിക്കുന്നു തുടർന്ന് readelf H hello o എന്ന കമാൻഡ് റൺ ചെയ്യുന്നു കിട്ടുന്ന ഔട്ട്പുട്ട് ഇപ്രകാരമായിരിക്കും അതിൽ ELF identify ചെയ്യാനുള്ള ഒരു മാജിക് നമ്പർ ഉണ്ട് ഈ ഒബ്ജക്റ്റ് ഫയൽ AMD X86 64 എന്നിവയ്ക്കായി കംപൈൽ ചെയ്തതാണെന്ന് കാണാം അതായത് 64 ബിറ്റിനായി കോൺഫിഗർ ചെയ്തിട്ടുള്ള AMD ഇന്റൽ മെഷീനുകൾക്ക് മാത്രമേ ഈ ഒബ്ജക്റ്റ് ഫയൽ ഉപയോഗിക്കാൻ കഴിയൂ അതിനുശേഷം എൻട്രി പോയിൻറ് അഡ്രസ്സ് ഉണ്ട് സെക്ഷൻ ഹെഡറുകളുടെ ഈ ആരംഭം 368 ബൈറ്റുകളുടെ ഫയലിക്കുള്ള ഒരു ഓഫ്സെറ്റാണ് കൂടാതെ ഈ കേസിൽ നിലവിലുള്ള സെക്ഷൻ ഹെഡറുകളുടെ എണ്ണം 13 ആണ് സെക്ഷൻ ഹെഡറുകളിലേക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം ഈ പ്രോഗ്രാമിനായുള്ള സെക്ഷൻ ഹെഡർ table ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ S ഓപ്ഷൻ ഉപയോഗിച്ച് readelf S hello o റൺ ചെയ്യുന്നതിലൂടെ ലഭിക്കും Outputൽ സെക്ഷൻ ഹെഡർ tableൻറെ വിഭാഗങ്ങൾ കാണാം ഇവിടെ കാണുന്നതു പോലെ PROGBITS ൽ നിന്ന് ആരംഭിക്കുന്ന വിവിധ തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് അതിൽ പ്രധാനമായും പ്രോഗ്രാം അല്ലെങ്കിൽ എഴുതിയ കോഡ് അടങ്ങിയിരിക്കുന്നു കൂടാതെ symbole table റീഅലോക്കേഷൻ പട്ടിക NULL NOBITS തുടങ്ങിയവയും നിങ്ങൾക്ക് കാണാം address എന്നറിയപ്പെടുന്ന മറ്റൊരു എൻട്രി ഉണ്ട് ഇത് ഒബ്ജക്റ്റ് ഫയലിലെ വിവിധ വിഭാഗങ്ങളുടെ വിർച്വൽ addressനെ സൂചിപ്പിക്കുന്നു o ഒരു ഒബ്ജക്റ്റ് file ആയതിനാൽ ഈ വിഭാഗങ്ങളെല്ലാം relocatable ആണ് ഇവിടെ നിലവിലുള്ള addressകൾ എല്ലാം പൂജ്യമാണ് അതിനുശേഷം രണ്ട് columns കൂടിയുണ്ട് ഒന്ന് offsetനും മറ്റൊന്ന് sizeനും Offset ELF ഒബ്ജക്റ്റിനുള്ളിലെ ഓഫ്സെറ്റ് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് text വിഭാഗം ഉദാഹരണത്തിന് text വിഭാഗം നിലകൊള്ളുന്നത് offset position 34ലും അതിന്റെ size 3C ഉംആണ് 3C ഇവിടെ ഹെക്സാഡെസിമൽ നൊട്ടേഷൻ ആണ് അതിനാൽ ഈ എല്ലാ സെക്ഷനുകൾക്കും പുറമേ ഇതുപോലുള്ള മറ്റ് സെക്ഷനുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഒരു ഫ്ലാഗ് column ഉണ്ട് അത് ഈ വിഭാഗത്തിനായുള്ള വിവിധ ഫ്ലാഗുകൾ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് A എന്നത് എക്സിക്യൂട്ടബിൾ എന്ന് സൂചിപ്പിക്കുമ്പോൾ X എന്നത് അലോക്കേറ്റഡ് എന്ന് സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് data വിഭാഗം ഉണ്ട് അതിൽ WA എന്ന ഫ്ലാഗ് ഉണ്ട് W എന്നത് റൈറ്റിനെ സൂചിപ്പിക്കുന്നു ഡാറ്റാ സെഗ്മെന്റ് എഴുതാൻ കഴിയുന്നതാണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ഒരു ELF ഫോർമാറ്റിന്റെ Linker View കണ്ടു അടുത്തതായി നമ്മൾ എക്സിക്യൂട്ടബിൾ viewലേക്ക് നോക്കും ELF എക്സിക്യൂട്ടബിളുകൾക്ക് എക്സിക്യൂട്ടബിൾ view ബാധകമാണ് gcc hello c o hello എന്ന കമാൻഡ് ഉപയോഗിച്ച് Hello c എക്സിക്യൂട്ടബിൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇത് ഒരു ELF എക്സിക്യൂട്ടബിൾ ആണ് ഇത് a outന് സമാനമാണ് ഇതിനെ Hello എന്ന് വിളിക്കുന്നു അതിനാൽ Hello എക്സിക്യൂട്ടബിളിന് ഇതുപോലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് കുറച്ച് മാറ്റങ്ങളുണ്ടെന്നതൊഴിച്ചാൽ ഈ ഫോർമാറ്റ് Linker view മായി വളരെ സാമ്യമുള്ളതാണ് ലിങ്കർ viewലെ വിഭാഗങ്ങളെ ഇപ്പോൾ സെഗ്മെന്റുകൾ എന്നാണ് ഇപ്പോൾ വിളിക്കുക എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ പ്രോഗ്രാം header table ഇപ്പോൾ ബാധകമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും ലിങ്കർ viewൽ ഈ പ്രോഗ്രാം header table നിലവിലുണ്ടെങ്കിലും ഉപയോഗിച്ചിരുന്നില്ല അതേസമയം എക്സിക്യൂട്ടബിൾ viewൽ section header table ഉപയോഗിക്കുന്നില്ല എക്സിക്യൂട്ടബിളിന്റെ ഫയൽ ഓർഗനൈസേഷനെ ELF ഹെഡർ വിവരിക്കുന്നു ഇതിന് നമ്മൾ മുൻപ് കണ്ടതുപോലെ ലിങ്കർ viewമായി സമാനമായ ഘടനയുണ്ട് പ്രോഗ്രാം header table വിവിധ ഫയൽ സെഗ്മെന്റുകൾ കണ്ടെത്താൻ സഹായിക്കുന്നു അതേസമയം നിലവിലുള്ള വിവിധ സെഗ്മെന്റുകൾ കോഡ് നിർദ്ദേശങ്ങൾ ഡാറ്റ symbol table relocation information എന്നിവയ്ക്കായി ഉപയോഗിക്കാം program header table എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതിൽ വിവിധ സെഗ്മെന്റുകൾക്കായുള്ള വിവിധ programs headers അടങ്ങിയിരിക്കുന്നു ഓരോ സെഗ്മെന്റിനും അനുയോജ്യമായ ഒരു header ഉണ്ടാകും ഒരു program headerലെ ഉള്ളടക്കങ്ങൾ ഇതുപോലെയായിരിക്കും ആ സെഗ്മെന്റ് loadable അല്ലെങ്കിൽ shared library ആണോ ആണോ എന്ന് എന്ന് വ്യക്തമാക്കുന്ന type സെഗ്മെന്റ് എവിടെയാണ് എന്ന് കാണിക്കുന്ന offset എക്സിക്യൂഷൻ സമയത്ത് പ്രോസസ്സിൽ ആ സെഗ്മെന്റ് എവിടെയാണ് ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു virtual address മുഴുവൻ വെർച്വൽ സ്പേസിലും ആ സെഗ്മെന്റ് ഏത് സ്ഥാനത്താണ് ലോഡ് ചെയ്യേണ്ടത് എന്നും ഇത് കാണിക്കുന്നു സെഗ്മെന്റ് ലോഡുചെയ്യേണ്ട physical address വ്യക്തമാക്കുന്ന physical address offset മിക്ക കേസുകളിലും ഈ എൻട്രി അവഗണിക്കപ്പെടുന്നു പ്രോസസറിന്റെ മെമ്മറി മാനേജുമെന്റ് യൂണിറ്റ് നമ്മുടെ പക്കലുണ്ട് അത് physical address കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നു എന്നീ entryകൾ ഈ tableൽ ഉണ്ട് ഇതിനു പുറമെ ഈ സെഗ്മെന്റിന്റെ വലിപ്പവും സെഗ്മെന്റിന്റെ മെമ്മറിയിലേക്ക് ലോഡു ചെയ്യുമ്പോൾ അതിന്റെ വലിപ്പവും കൂടാതെ ഈ പ്രത്യേക സെഗ്മെന്റിനായി ഫ്ലാഗുകളും അത് ആ സെഗ്മെന്റ് വായിക്കാനോ എഴുതാനോ കഴിയുമോ എന്ന് വ്യക്തമാക്കുന്നു store ചെയ്യുന്നതിനുള്ള ഉള്ള entryകൾ ഉണ്ട് അതിനാൽ നമുക്ക് വീണ്ടും hello c ഫയൽ എടുത്ത് എക്സിക്യൂട്ടബിൾ hello സൃഷ്ടിച്ച് program header വിവരങ്ങൾ നോക്കാം readelf L hello എന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് slideൽ കാണുന്ന പോലെ ഒരു output ലഭിക്കും 9 program headers ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക വിവിധ സെഗ്മെന്റുകൾക്കായുള്ള ഓഫ്സെറ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ സെഗ്മെന്റുകൾ ഓരോന്നും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലോഡു ചെയ്യേണ്ട virtual address program headerൽ ഉണ്ട് physical addressesഉം ഉണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്നില്ല കൂടാതെ file sizeഉം memory sizeഉം ഫ്ലാഗുകളും ഉണ്ട് ഉദാഹരണത്തിന് വായിക്കാവുന്നതും എക്സിക്യൂട്ടബിൾ ചെയ്യാൻ സാധിക്കുന്നതുമായ text section ഇവിടെയുണ്ട് ഈ sectionൽ code ഉണ്ട് ഈ code ഈ sectionൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യും കൂടാതെ അത് sectionൽ നിന്ന് സെഗ്മെന്റിലേക്ക് ഒരു മാപ്പിംഗ് സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് സെഗ്മെന്റ് 2ൽ ഈ വിഭാഗങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നു വിഭാഗം 5ഇൽ buildLD എന്നിങ്ങനെയുള്ള സെക്ഷനുകൾ ഉണ്ട് അതിനാൽ പ്രോഗ്രാമിലെ നിലവിലുള്ള എല്ലാ വിഭാഗങ്ങളും ഒരു പ്രത്യേക സെഗ്മെന്റിലേക്ക് മാപ്പു ചെയ്യുന്നു ഇപ്പോൾ ELF എക്സിക്യൂട്ടബിളിലെ ഉള്ളടക്കങ്ങളിലേക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സൃഷ്ടിച്ച hello എക്സിക്യൂട്ടബിൾ എടുക്കുക എന്നതാണ് മാത്രമല്ല ആ പ്രത്യേക എക്സിക്യൂട്ടബിളിനായി ഡിസ്അസംബ്ലിംഗ് ചെയ്യാനും കഴിയും objdump disassemble all hello hello lst പോലുള്ള കമാൻഡ് റൺ ചെയ്യുന്നതിലൂടെ ELF എക്സിക്യൂട്ടബിളിനെ പൂർണ്ണമായി disassembly ചെയ്യാൻ നമുക്ക് കഴിയും ആ hello lst ഫയലിന്റെ ഒരു ചെറിയ സ്നിപ്പെറ്റ് main പ്രോഗ്രാമിനെ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ അതിനാൽ ഈ main പ്രോഗ്രാമിനായുള്ള അസംബ്ലി ലെവൽ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ പ്രത്യേക columnൽ നമ്മൾ കാണുന്നത് വെർച്വൽ address ആണ് ഈ columnsൽ അനുബന്ധ നിർദ്ദേശങ്ങളുണ്ട് ഇവിടെ LT ൽ printf ലേക്ക് ഒരു കോൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ള ക്ലാസ്സിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ കാണും അതുപോലെ ഈ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന മറ്റ് നിർദ്ദേശങ്ങളും ഉണ്ട് മറ്റൊരു പ്രധാന വശം ഇവിടെയുള്ള ഈ column ആണ് ഇത് നിങ്ങൾക്ക് 59 89 E5 എന്നിങ്ങനെയുള്ള സംഖ്യകളുടെ ഒരു ശ്രേണി നൽകുന്നു ഈ സംഖ്യകളെ പ്രതിനിധീകരിക്കുന്നത് ഓരോ പ്രവർത്തനത്തിനും അനുയോജ്യമായ മെഷീൻ ലെവൽ കോഡുകളാണ് ഉദാഹരണത്തിന് 55 push EBPയെ സൂചിപ്പിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രോസസ്സർ 55 ആയി എൻകോഡുചെയ്ത ഒരു നിർദ്ദേശം കാണുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ രജിസ്റ്റർ EBPയെ ഈ typeലേക്ക് push ചെയ്യണം എന്നാണ് അതുപോലെ തന്നെ 89 EC 20 എന്നീ സംഖ്യകൾ നിർദ്ദേശത്തിൽ കണ്ടാൽ സ്റ്റാക്ക് പോയിന്ററിൽ നിന്ന് 20X കുറയ്ക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് ELF എക്സിക്യൂട്ടബിളിൽ നിന്ന് പ്രോസസുകളിലേക്ക് നീങ്ങാം out എന്ന കമാൻഡ് ചെയ്യുമ്പോൾ ഷെല്ലിൽ പ്രോസസ്സ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ELF എക്സിക്യൂട്ടബിൾ ഡിസ്കിൽ നിന്ന് റാമിലേക്ക് മാറ്റപ്പെടും എന്നും നമുക്ക് കാണാൻ കഴിയും ഷെൽ നിങ്ങളുടെ കമാൻഡ് സ്വീകരിക്കുമ്പോൾ ഫംഗ്ഷൻ ഒരു fork invoke ചെയ്യും അത് സിസ്റ്റം കോൾ ആയിരിക്കും മാത്രമല്ല ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു OS പിന്നീട് ഇതുപോലുള്ള ഒരു child process സൃഷ്ടിക്കും അതിനാൽ ഈ പ്രവചന പാത നിങ്ങളുടെ ഷെൽ കാണിക്കുന്നു ഫോർക്ക് സിസ്റ്റം കോളുകൾ സൃഷ്ടിക്കുമ്പോൾ ഒരു ചൈൽഡ് പ്രോസസ്സ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രോസസ്സുകളുണ്ട് parent processൽ fork P എന്ന variableൽ store ചെയ്ത value അതായത് ചൈൽഡ് PID ഉണ്ട് ഇത് പൂജ്യത്തേക്കാൾ വലുതാണ് എന്നാൽ child processൽ Pയുടെ value 0 ആണ് പാരന്റ് പ്രോസസ് കോഡിന്റെ ഈ ഭാഗം എക്സിക്യൂട്ട് ചെയ്യും അതേസമയം ചൈൽഡ് പ്രോസസ് ഭാഗം എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നു Child processൻറെ കോഡിന്റെ ഭാഗത്ത് രണ്ടാമത്തെ സിസ്റ്റം കോൾ ഉണ്ട് അത് exec system call ആണ് അത് ഉപയോഗിച്ച് helo world program execute ചെയ്യുന്നു parent പ്രോസസ്സ് wait സിസ്റ്റം കോളിനെ invoke ചെയ്യുന്നു അങ്ങിനെ parent process ചൈൽഡ് പ്രോസസ്സ് അതിന്റെ നിർവ്വഹണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും അതിനാൽ exec കോളിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ exec സിസ്റ്റം കോൾ invoke ചെയ്യുമ്പോൾ OS ഒരു പുതിയ പ്രോസസ്സിനായി വെർച്വൽ അഡ്രസ്സ് ബേസ് സൃഷ്ടിക്കും അത് ഹാർഡ് ഡിസ്കിൽ സംഭരിച്ചിരിക്കുന്ന exec call specify ചെയ്യുന്ന എക്സിക്യൂട്ടബിൾ ഫയലിൽ നിന്ന് സെഗ്മെന്റുകൾ ലോഡ് ചെയ്ത് വെർച്വൽ അഡ്രസ്സ് ബേസിലേക്ക് കോപ്പി ചെയ്യും ഉദാഹരണത്തിന് നിർദ്ദേശവും കോഡും അടങ്ങുന്ന എല്ലാ സെഗ്മെന്റുകളും ഈ ടെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പകർത്തുന്നു എല്ലാ ഡാറ്റയും ആഗോള ഡാറ്റയും സ്റ്റാറ്റിക് ഡാറ്റയും ഈ ഡാറ്റാ വിഭാഗത്തിലേക്ക് പകർത്തുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാം എടുത്തിട്ടുണ്ട് ഈ പ്രോഗ്രാം ഒരു പ്രത്യേക സംഖ്യയുടെ ഫാക്റ്റോറിയൽ ഒരു recursive function ഉപയോഗിച്ച് കണക്കാക്കുന്നു ഈ പ്രോഗ്രാം compile ചെയ്യുമ്പോൾ ELF എക്സിക്യൂട്ടബിൾ create ചെയ്യപ്പെടുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ programൻറെ വിർച്വൽ അഡ്രസ്സ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു OS ഈ പ്രോഗ്രാമിന്റെ കോഡ് സെഗ്മെന്റുകൾ text സെഗ്മെന്റിലേക്ക് ലോഡുചെയ്യും ഇത് ഡാറ്റാ സെഗ്മെന്റിലേക്ക് global data ലോഡുചെയ്യുകയും ഒരു malloc ഡാറ്റ ഉണ്ടാകുമ്പോഴെല്ലാം heapലേക്ക് allocate ചെയ്യുകയും ചെയ്യുന്നു അവസാനമായി നമുക്ക് ഈ text സെഗ്മെന്റ് ഉണ്ട് അത് ലോക്കൽ വേരിയബിളുകൾ ഉൾക്കൊള്ളുന്നു അതിനാൽ main ഫംഗ്ഷനിൽ ലോക്കൽ വേരിയബിളുകൾ N M എന്നിവയാണ് ഈ ലോക്കൽ വേരിയബിളുകൾ സ്റ്റാക്കിൽ ഉണ്ട് ഇവ കൂടാതെ സ്റ്റാക്കിൽ ഫംഗ്ഷൻ invocationനെ കുറിച്ചും ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രോസസ്സിംഗ് ചെയ്യുന്ന പാരാമീറ്ററുകൾ എന്നിവയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ procdirectory യിൽ നിന്ന് ഈ വെർച്വൽ അഡ്രസ്സ് നെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കും ഒരു ലിനക്സ് സിസ്റ്റത്തിൽ hello world പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വിർച്വൽ അഡ്രസ്സ് ബേസ് കാണാൻ കഴിയും ആദ്യം നമുക്ക് hello world പ്രോഗ്രാമിന്റെ PID ലഭിക്കേണ്ടതുണ്ട് ps ae | grep hello എന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ hello process എവിടെയാണെന്നും അതിന്റെ PID 6757 ആണെന്നും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ file proc 6757 maps PID 6757 നായുള്ള വെർച്വൽ അഡ്രസ്സ് ബേസ് ഉൾക്കൊള്ളുന്നു ഇത് hello എക്സിക്യൂട്ടബിളിന് സമാനമാണ് Virtual address map ഈ രീതിയിൽ ആണ് കാണുക അതിൽ വിവിധ സെഗ്മെന്റുകൾ നിലവിലുണ്ടെന്ന് നമുക്ക്കാണാൻ കഴിയും ചിലത് hello പ്രോഗ്രാമിൽ തന്നെ ഉണ്ട് ചിലത് libc ലൈബ്രറിയിൽ ഉണ്ട് ചിലത് ലോഡർ ലൈബ്രറിയിലും ഉണ്ട് VDSO പോലുള്ള സ്റ്റാക്കും ചില internal സെഗ്മെന്റുകളും നിലവിലുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ആദ്യ column വിവിധ സെഗ്മെന്റുകൾക്കായുള്ള വിവിധ വെർച്വൽ അഡ്രസ്സ് ശ്രേണികൾ ഉൾക്കൊള്ളുന്നു ഉദാഹരണത്തിന് hello എക്സിക്യൂട്ടബിളിൽ നമുക്ക് 0x8049000 മുതൽ 0x804a000 വരെ ആരംഭിക്കുന്ന സെഗ്മെന്റുകളുണ്ട് രണ്ടാമത്തെ coulmn ഓരോ സെഗ്മെന്റിനുമുള്ള വിവിധ ഫ്ലാഗുകൾ വ്യക്തമാക്കുന്നു സെഗ്മെന്റ് എവിടെ നിന്ന് ലോഡുചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത മൂന്ന് columns വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് ഒരു സെഗ്മെന്റിൽ നിന്ന് ലോഡ് ചെയ്ത ELF ഫയലിലെ ഓഫ്സെറ്റ് നാലാമത്തെ column വ്യക്തമാക്കുന്നു അഞ്ചാമത്തെ column ഹാർഡ് ഡിസ്ക് നമ്പറോ ഉപകരണ നമ്പറോ വ്യക്തമാക്കുന്നു അത് ഈ Segment store ചെയ്തിരിക്കുന്ന ഡിസ്കിലെ location സൂചിപ്പിക്കുന്ന major and minor number ആണ് ആറാമത്തെ column ഐനോഡ് നമ്പർ വ്യക്തമാക്കുന്നു അത് അടിസ്ഥാനപരമായി ഈ പ്രത്യേക ലൈബ്രറിക്ക് hard diskൽ ഒരു ഐഡന്റിഫയറാണ് ഒരു പ്രോസസ്സിൻറെ വെർച്വൽ അഡ്രസ്സ് മാപ്പ് പൂർണ്ണമായും വ്യക്തമാക്കുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ പക്കലുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ടെക്സ്റ്റ് സെഗ്മെന്റിനായി ഫയൽ ഉപകരണ നമ്പർ ഐനോഡ് എന്നിവയിലെ ഓഫ്സെറ്റ് പൂജ്യമാണെന്ന് നമ്മൾ കാണുന്നു റൺടൈമിൽ ടെക്സ്റ്റ് സെഗ്മെന്റ് dynamic ആയി സൃഷ്ടിക്കപ്പെടുകയും ELF എക്സിക്യൂട്ടബിൾ fileനും ELF ഒബ്ജക്റ്റ് fileനും സ്റ്റാക്കിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതു കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രോഗ്രാമിൽ സ്റ്റാക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായി നോക്കാം പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത് ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മൾ കാണും ഉദാഹരണത്തിന് ഈ പ്രോഗ്രാം രണ്ട് ഫംഗ്ഷനുകൾ ഉൾക്കൊള്ളുന്നു ഒരു main ഫംഗ്ഷൻ ഉം fact ഫംഗ്ഷൻ ഉം യൂസർ input ചെയ്യുന്ന N എന്ന നമ്പറിന്റെ ഫാക്റ്റോറിയൽ നിർണ്ണയിക്കുക എന്നതാണ് ഈ recursive functionന്റെ ലക്ഷ്യം ഈ ഫംഗ്ഷന് രണ്ട് parameters ഉണ്ട് a എന്ന integerഉം b എന്ന integer pointerഉം aയുടെ value 1 ആകുന്നതുവരെ ഈ ഫംഗ്ഷൻ പ്രവ്ർത്തിക്കും സ്റ്റാക്ക് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് മനസിലാക്കാൻ രണ്ട് രജിസ്റ്ററുകളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്ന് ESP എന്നറിയപ്പെടുന്ന സ്റ്റാക്ക് പോയിന്റർ registerഉം മറ്റൊന്ന് EBP എന്ന് എന്നറിയപ്പെടുന്ന ഫ്രെയിം പോയിന്റർ registerഉം ആണ് ഈ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഈ സ്റ്റാക്കിനെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് സ്റ്റാക്കിലെ ഒരു സ്ഥലത്തേക്ക് പോയിന്റു ചെയ്യുന്ന ഒരു ഫ്രെയിം പോയിന്റർ ഉണ്ട് ഒപ്പം സ്റ്റാക്കിൽ താഴേക്ക് ചൂണ്ടുന്ന ഒരു സ്റ്റാക്ക് പോയിന്റർ ഉണ്ട് ഓരോ തവണയും നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് എന്തെങ്കിലും പുഷ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ അഡ്രസ് കുറയുന്നു നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിന്റർ അഡ്രസ്സ് വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ അടിസ്ഥാന പോയിന്റർ മുതൽ സ്റ്റാക്ക് പോയിന്റർ വരെയുള്ള പ്രദേശം ഒരു active frame എന്ന് നമ്മൾ നിർവചിക്കുന്നു main ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൌണ്ടർ ഈ സ്ഥാനത്തേക്ക് പോയിന്റുചെയ്യുന്നു ഇപ്പോൾ main ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും പ്രോഗ്രാം counter ഈ നിർദ്ദേശത്തിലേക്ക് point ചെയ്യുമ്പോഴും നമുക്ക് ഈ active frame ഉണ്ട് നമ്മൾ ഇതിനെ ഒരു സ്റ്റാക്ക് ഫ്രെയിം എന്ന് വിളിക്കുന്നു ഇത് സജീവ ഫ്രെയിമാണ് കാരണം ഇത് അടിസ്ഥാന പോയിന്ററിനും സ്റ്റാക്ക് പോയിന്ററിനും ഇടയിലാണ് അതിനാൽ ഈ പ്രദേശം സജീവ ഫ്രെയിമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് എല്ലാ local variablesഉം ഉണ്ട് അതായത് N M എന്നീ local variables ഈ regionലെ മെമ്മറി locationsലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു fact function invoke ചെയ്യപ്പെട്മ്പോൾ എന്തുസംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം പ്രധാനമായും ചെയ്യേണ്ടത് N M എന്നീ പാരാമീറ്ററുകൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക എന്നതാണ് തുടർന്ന് അത് fact ഫംഗ്ഷനെ വിളിക്കും Call instruction functionൻറെ return address സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും അതിനാൽ return address fact ഫംഗ്ഷന് തൊട്ടു പിന്നിലുള്ള നിർദ്ദേശമായിരിക്കും ഫാക്റ്റ് function return ചെയ്യുമ്പോൾ ഉടൻ നടപ്പിലാക്കേണ്ട ഇൻസ്ട്രക്ഷൻ ഇത് സൂചിപ്പിക്കും അതിനാൽ fact ഫംഗ്ഷനിലേക്കുള്ള കോളിന് ശേഷം നിങ്ങൾക്ക് ഒരു active ഫ്രെയിം ലഭിക്കും Fact ഫംഗ്ഷൻ പാരാമീറ്ററുകൾ N M എന്നിവയുടെ ഒരു പകർപ്പായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് return address ലഭിക്കും fact ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് ഈ സ്ഥാനത്തേക്ക് മുമ്പ് point ചൂണ്ടിക്കാണിച്ച ഫ്രെയിം പോയിന്റർ കോപ്പി ചെയ്യുക എന്നതാണ് ഈ ഫ്രെയിം പോയിന്റർ സ്റ്റാക്കിലേക്കും തുടർന്ന് ഈ ലൊക്കേഷനിലേക്ക് ഉം നീക്കപ്പെടുന്നു ഇപ്പോൾ നമുക്ക് ഒരു പുതിയ സജീവമായ ഫ്രെയിം ലഭിച്ചു ഇത് നമ്മൾ fact ഫംഗ്ഷന്റെ സ്റ്റാക്ക് ഫ്രെയിം എന്ന് വിളിക്കുന്നു fact ഫംഗ്ഷനുള്ള local variables പിന്നീട് സ്റ്റാക്കിലും അതിന്റെ ബിറ്റിലും കാണപ്പെടുന്നു ഈ local variables ബേസ് പോയിന്ററിനും സ്റ്റാക്ക് പോയിന്ററിനുമിടയിൽ ഉണ്ട് അതിനാൽ fact ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ fact ഫംഗ്ഷനെ ആവർത്തിച്ച്ക്ഷണിക്കും fact ഫംഗ്ഷൻ വീണ്ടും invoke ചെയ്യപ്പെടുമ്പോൾ ഈ functionൻറെ paraemeters return address എന്നിവ മുമ്പത്തെ EBP സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ഈ fact functionൻറെ local variables stackൽ ഉണ്ട് അതിനാൽ സ്റ്റാക്കിൽ നിന്നുള്ള ആദ്യ റിട്ടേണിൽ മുമ്പത്തെ ഫ്രെയിമിലേക്ക് പോയിന്റുചെയ്യുന്ന മുമ്പത്തെ ബേസ് പോയിന്റർ base പോയിന്ററിലേക്ക് ലോഡുചെയ്യുന്നു അതിനാൽ നമുക്ക് പുതിയ ഫാക്റ്റ് ഫ്രെയിം ലഭിക്കും ഇതോടെ നമ്മൾ ELF ലോഡറിനും എക്സിക്യൂട്ടബിൾ ഫോർമാറ്റുകൾക്കും ഒരു ചെറിയ ആമുഖം നൽകിയിട്ടുണ്ട് തുടർന്ന് പ്രോസസ്സുകൾ എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടബിളുകൾ പ്രവർത്തിപ്പിക്കുകയും ലോഡ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു ELF എക്സിക്യൂട്ടബിളുകൾ ഒരു വെർച്വൽ വിലാസം സൃഷ്ടിക്കുന്നു ഒടുവിൽ പ്രോഗ്രാമിലെ സ്റ്റാക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു അതിനാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കമാൻഡ് ലൈൻ ആർഗ്യുമെന്റുകളെക്കുറിച്ചാണ് main ഫംഗ്ഷൻ argc argv എന്നീ രണ്ട് പാരാമീറ്ററുകൾ എടുക്കുമെന്ന് നമുക്കറിയാം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഷെല്ലിൽ ഉള്ള കമാൻഡ് ലൈനിൽ നിന്ന് പ്രോഗ്രാമിലേക്ക് ഈ ആർഗ്യുമെന്റുകൾ എങ്ങനെയാണ് കൈമാറുന്നത് എന്നതാണ്